പ്രൊഫ ദിവ്യ ഹലോ അനിതാ ദേശായിയുടെ ഗെയിംസ് അറ്റ് ട്വിലൈറ്റ് എന്ന കഥയെക്കുറിച്ചുള്ള ഈ സംഭാഷണത്തിലേക്ക് സ്വാഗതം എന്റെ ഒപ്പം മദ്രാസ് ഐഐടിയിൽ എംഎ വിദ്യാർഥിനിയായ ഗായത്രി ഉണ്ട് സ്വാഗതം ഗായത്രി ഗായത്രി നന്ദി മാഡം പ്രൊഫ ഈ കഥയെ നിങ്ങൾ എങ്ങനെയാണ് മനസിലാക്കുന്നത് അനിത ദേശായി വളരെയധികം ഇമേജറി ഉപയോഗിക്കുന്നതായി എനിക്ക് തോന്നുന്നു നാം യഥാർത്ഥത്തിൽ ഈ കഥയിൽ ആയിരിക്കുന്നതുപോലെ നമുക്ക് തോന്നുന്നു ചൂടുള്ള സൂര്യൻ അതിന്റെ ചുട്ടുപൊള്ളുന്ന ചൂട് എന്നിവ നമുക്ക് ഇവിടെ അനുഭവിക്കാൻ സാധിക്കും ഇന്ത്യൻ സെൻസിബിലിറ്റികൾ വെച്ച് പറയുമ്പോൾ മറ്റു പല ചെറുകഥകളെ അപേക്ഷിച്ച് എനിക്ക് ഈ കഥയുമായി കൂടുതൽ മാനസികമായ അടുപ്പം അനുഭവപ്പെട്ടു കാരണം ചുട്ടുപൊള്ളുന്ന ചൂടിൽ കളിച്ചിരുന്ന കുട്ടികളിൽ ഒരാളാണ് ഞാനും മാതാപിതാക്കൾ പറയുന്നത് ഞങ്ങൾ കാര്യമാക്കിയിരുന്നില്ല ദിവസം മുഴുവനും ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിനാൽ മറ്റു പല കഥകളേക്കാൾ ഈ കഥയുമായി എനിക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു പ്രൊഫ ശരി വളരെ നല്ലത് അതിനാൽ ചൂടുള്ള വേനൽക്കാലത്ത് കുട്ടികളിൽ അവരുടെ മാതാപിതാക്കളുടെ ശിക്ഷണം ഉണ്ടാക്കുന്ന പ്രതികരണം ഒരു ഇന്ത്യൻ സെൻസിബിലിറ്റി വെച്ച് മനസ്സിലാക്കാവുന്നതേയുള്ളൂ നമുക്ക് അതിനെ നമ്മുടെ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്താൻ സാധിക്കും എന്നാൽ ഈ പ്രത്യേക കഥയിൽ കളിക്കുന്ന ഈ ഗെയിമുകൾക്ക് അട്ടിമറിയുടെ ഒരു വശമുണ്ട് അനിതാ ദേശായി ശരിക്കും നമ്മെ സ്വാധീനിക്കുന്നു ഈ ഗെയിമുകളിൽ വിശ്വാസം അർപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാൽ അവർക്ക് നിഗൂഢമായ ഒരു ലക്ഷ്യമുണ്ട് അത് ഈ ഗെയിമുകളുടെ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് നാം ഓർക്കേണ്ട കാര്യമാണ് ഗായത്രി നമുക്ക് ഗെയിംസ് അറ്റ് ട്വിലൈറ്റ്' എന്ന ശീർഷകത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ആരംഭിക്കാം കഥ ആരംഭിക്കുന്നത് രാവിലെയാണ് സന്ധ്യയെക്കുറിച്ച് വളരെ പെട്ടെന്ന് കടന്നുപോകുന്ന ഒരു പരാമർശം മാത്രമേ ഉള്ളു നിങ്ങൾക്ക് എന്തു തോന്നുന്നു അതെ അത് ക്രമേണയുള്ള ഒരു തുടക്കമാണ് വാസ്തവത്തിൽ എന്റെ ഒരു പ്രഭാഷണ സെഷനിൽ ഞാൻ പ്രാധാന്യത്തോടെ പറഞ്ഞ അനിതാ ദേശായിയുടെ തന്നെ വാചകം ഞാൻ ഓർത്തു പോകുന്നു കഥയുടെ ഘടനയുടെ കാര്യത്തിൽ അവർ അത്ര കാർക്കശ്യം കാണിക്കാറില്ലെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഖുശ്വന്ത് സിംഗ് എഴുതുന്നത് പോലെയുള്ള കൃത്യമായ തുടക്കവും കൃത്യമായ മധ്യവും കൃത്യമായ അവസാനവുമുള്ള കഥയല്ല ദേശായി എഴുതുന്നത് അവർ അതിനെ അങ്ങനെ സജ്ജീകരിക്കുന്നില്ല ഖുശ്വന്ത് സിംഗിന്റെ കഥയിൽ എല്ലാം ക്രമത്തിലാണ് എന്നാൽ ദേശായി തന്റെ എഴുത്തിന്റെ ശൈലി അങ്ങനെയല്ല എന്ന് പറയുന്നു താൻ കഥയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നില്ല എന്നും അത് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് വികസിക്കുന്നതെന്നും അവർ പറയുന്നു അത് വളരെ രസകരമാണ് കാരണം കഥയിലേക്ക് ശരിക്കും കടക്കുന്നതുവരെ നാം രവിയെ കാണുന്നില്ല തുടക്കത്തിൽ തന്നെ കൃത്രിമമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ രചയിതാവ് അവനെ അവതരിപ്പിക്കുന്നില്ല നിങ്ങൾ പറയുന്നതുപോലെ കഥ ആരംഭിക്കുന്നത് സന്ധ്യാസമയത്തല്ല അത് വളരെ രസകരമായ കാര്യമാണ് ഉച്ചതിരിഞ്ഞുള്ള സമയത്താണ് കഥ ആരംഭിക്കുന്നത് കഥയുടെ ആദ്യ വരി ഞാൻ ഇവിടെ വായിക്കട്ടെ 'അപ്പോഴും വളരെ ചൂടായിരുന്നു പുറത്ത് കളിക്കാൻ പറ്റാത്തത്ര ചൂടായിരുന്നു അവർ ചായ കുടിച്ചു അവരെ കുളിപ്പിച്ച് കഴിഞ്ഞിരുന്നു അവരുടെ തലമുടി ബ്രഷ് ചെയ്തിരുന്നു നീണ്ട ഒരു ദിവസത്തെ തടവിന് ശേഷം വീടിനുള്ളിൽ ചൂട് കുറവായിരുന്നില്ലെങ്കിലും അത് വരെ സൂര്യന്റെ ചൂടിൽ നിന്ന് സംരക്ഷണം ലഭിച്ച കുട്ടികൾ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചു ' അതിനാൽ ഇത് ഉച്ചതിരിഞ്ഞതിനു ശേഷമുള്ള സമയമാണെന്ന് നമുക്ക് അനുമാനിക്കാം കുട്ടികൾ അവരുടെ ദിനചര്യയുടെ ഭാഗമായ കുളി കഴിഞ്ഞു ചായ കുടിച്ചതിനു ശേഷം പുറത്തുപോകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇപ്പോഴും വളരെ ചൂടാണ് അതിനാൽ അവിടെ ഒരു പൊരുത്തക്കേട് ഉണ്ട് സായാഹ്നം എന്നതിനർത്ഥം ഭൂമി തണുക്കുന്നു എന്നല്ല പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലെ വേനൽക്കാലത്ത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ശരിയാണ് സന്ധ്യ എന്ന ആശയം കഥയിൽ വളരെ വൈകിയാണ് കടന്നുവരുന്നത് അപ്പോഴാണ് രവി ഷെഡിൽ നിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നത് സന്ധ്യ ആയതുകൊണ്ടാണ് അവൻ പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നത് മറ്റു കുട്ടികളുടെ ശബ്ദം അവന് കേൾക്കാമായിരുന്നു അവർ പാടുകയായിരുന്നു ആദ്യമായിട്ടാണ് അവർ വഴക്കിടാതിരിക്കുന്നത് കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഷെഡിനുള്ളിൽ ഇരുന്നുകൊണ്ട് അവൻ സങ്കൽപ്പിക്കുന്നത് അതാണ് അപ്പോഴാണ് കഥയിൽ നമ്മൾ സന്ധ്യയെ കാണുന്നത് അങ്ങനെയാണ് ദേശായി കഥയുടെ അവസാനഘട്ടത്തിൽ സന്ധ്യയെ വിവരിക്കുന്നത് ഷെഡിൽ ഇരുട്ടു മൂടുന്നുവെന്ന് അവർ പറയുന്നു വാതിലിലെ വെളിച്ചം മങ്ങും തോറും അത് പൊടിയുന്ന മഞ്ഞ പൂമ്പൊടി പോലെയും പിന്നെ ഒരു മഞ്ഞ പടലം പോലെയും തുടർന്ന് നീല ചാര പടലങ്ങൾ പോലെയും കാണപ്പെടുന്നു ഇത് വായിക്കുമ്പോൾ ഫസിയർ പോലെയുള്ള വാക്കുകളുടെ തിരഞ്ഞെടുപ്പ് എന്നെ അദ്ഭുതപ്പെടുത്തുന്നു വീണ്ടും സന്ധ്യ എന്നത് പകലുമല്ല രാത്രിയുമല്ല അതിനിടയിൽ ഉള്ള സമയമാണ് രണ്ടു കാര്യങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന അവസ്ഥയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ക്ഷണികമായ ഒരു അവസ്ഥ അത് വളരെ രസകരമാണ് കാരണം മനസ്സിന്റെ അവസ്ഥ തന്നെ അവ്യക്തമാണ് 'ഫസി' എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഉള്ളിൽ നിന്നും അപനിർമ്മാണം സംഭവിക്കുന്ന തകർന്നുപോകുന്ന അവസ്ഥയെയാണ് പൊടിയുന്ന മഞ്ഞ പൂമ്പൊടി സൂചിപ്പിക്കുന്നത് ആ അർത്ഥം ഇവിടെ ആഖ്യാനത്തിൽ നെയ്തെടുക്കുകയാണ് വീണ്ടും മഞ്ഞ നീല ചാരനിറം എന്നിവ പ്രത്യേകിച്ചും ചാരനിറം ഒരുതരം മങ്ങിയ നിറമാണ് വീണ്ടും അത് അവിടെയും അല്ല ഇവിടെയും അല്ല കറുപ്പുമല്ല വെളുപ്പുമല്ല തീർച്ചയായും ഇടയിലുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ കുട്ടികൾ തീരെ കുഞ്ഞുങ്ങളുമല്ല മുതിർന്നവരുമല്ല മറിച്ച് രണ്ടിന്റെയും ഇടയിലുള്ള സ്ഥിതിയിലാണ് അവർ മുതിർന്നവരാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അവർ അങ്ങനെയല്ല ഇവിടെ വളരെയധികം ആശയക്കുഴപ്പമുണ്ട് അതിനാൽ ആ അവസ്ഥയും വളരെ രസകരമാണ് പിന്നീട് ദേശായി സന്ധ്യയെ വിവരിക്കുന്നു വെള്ളം കുത്തിയൊഴുകുന്നതിന്റെ ശബ്ദം വെള്ളം വീഴുന്നത് വെള്ളം സ്വീകരിക്കുന്ന ഭൂമിയുടെ ഗന്ധം വലിയ വിഴുങ്ങലുകളിൽ ഭൂമി അതിന്റെ ദാഹം ശമിപ്പിക്കുന്നത് പുതുമയുടെയും കുളിർമയുടെയും പച്ചപ്പ് കലർന്ന നിശ്വാസം ഇവയെല്ലാം വിവരണത്തിൽ കടന്നുവരുന്നു ഒരു മനുഷ്യനെ വിവരിക്കുന്നതു പോലെയാണ് ഭൂമിയെ വിവരിക്കുന്നത് ഭൂമി തന്റെ ദാഹം ശമിപ്പിക്കുകയും തന്റെ തണുത്ത നിശ്വാസം അന്തരീക്ഷത്തിലേക്ക് പടർത്തുകയും ചെയ്യുന്നു ഈയൊരു നിമിഷത്തിൽ മാത്രമാണ് കഥയിൽ സമാധാനവും ശാന്തതയും സുഖകരമായ ഒരു അന്തരീക്ഷവുമുള്ളതെന്ന് ഞാൻ കരുതുന്നു മറ്റ് നിമിഷങ്ങളിൽ അട്ടിമറിക്കുന്നതോ നിഷേധാത്മകമായതോ അശുഭാപ്തിവിശ്വാസമുള്ളതോ ആയ ഒന്നാണ് ആഖ്യാനം അതിന്റെ വാക്കുകളിലും ആശയങ്ങളിലും ഷെഡിന്റെയും ഗാരേജിന്റെയും നീണ്ട പർപ്പിൾ നിറത്തിലുള്ള നിഴലുകൾ മുറ്റത്തിന് കുറുകെ നിശ്ചലമായി കിടക്കുന്നത് വിടവിലൂടെ രവി കണ്ടു അതിനപ്പുറം വീടിന്റെ വെളുത്ത ഭിത്തികൾ ബൊഗെയ്ൻവില്ലയ്ക്ക് അതിന്റെ ഓജസ് നഷ്ടപ്പെട്ടിരുന്നു അത് ഇരുണ്ട നിറത്തിലുള്ള കെട്ടുകളായി തൂങ്ങിക്കിടന്നു അവയെ കുരുവികൾ കൂട്ടത്തോടെ പിടിച്ചുലക്കുന്നുണ്ടായിരുന്നു അവയുടെ ഉള്ളിൽ നിന്നും കുരുവികളുടെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു പുൽത്തകിടി അവന്റെ കാഴ്ചയ്ക്കപ്പുറമായിരുന്നു കുട്ടികളുടെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് അവന് തോന്നി എന്നാൽ അത് വ്യക്തമായിരുന്നില്ല അവരുടെ ചിരിയും പാട്ടും അവനു കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് അവനു തോന്നി പക്ഷേ കളിയുടെ കാര്യമോ എന്താണ് സംഭവിച്ചത് അത് അവസാനിച്ചിരിക്കുമോ അവനെ കണ്ടെത്താതെ എങ്ങനെ അത് അവസാനിക്കും ഇവിടെ എന്റെ പ്രഭാഷണങ്ങളിൽ ഞാൻ പരാമർശിച്ചിട്ടുള്ള രസകരമായ ഒരു കാര്യം മരങ്ങളുടെ വിവരണമാണ് ബോഗൻവില്ല മരങ്ങൾ ഗായത്രി അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് തുടക്കത്തിൽ ബോഗൻവില്ല മരങ്ങളെക്കുറിച്ചുള്ള വിവരണം മനോഹരമാണ് എന്നാൽ അവയുടെ ഓജസ് നഷ്ടപ്പെട്ടതായി പറയുന്നു അപ്പോൾ വരാൻ പോകുന്ന എന്തിന്റെയെങ്കിലും ഒരു സൂചനയാണോ ഇത് പ്രൊഫ അതെ അതെ ഒരുപക്ഷേ കാരണം ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ 'ലിവിഡിറ്റി' എന്നത് മുറിവുമായി ബന്ധപ്പെട്ട ഒന്നാണ് അത് ഞെരുക്കത്തിനെയും മുറിവേൽക്കുമ്പോൾ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുമ്പോൾ ചർമ്മത്തിൽ പ്രത്യക്ഷപ്പെടുന്ന നീലകലർന്ന ചാരനിറത്തിനെയും ഓർമപ്പെടുത്തുന്നു ആ നിറമാണ് വളരെ ശോഭയാർന്ന നിറങ്ങളുള്ള ഈ ബൊഗെയ്ൻവില്ല മരവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ഈ മരത്തിനെ സംബന്ധിച്ച് ഇത് വളരെ വിചിത്രമായ ഒരു ആശയമാണ് നിങ്ങൾ പറഞ്ഞതുപോലെ രവിക്ക് അവൻ ആഗ്രഹിക്കുന്നത് എന്തോ അത് കിട്ടില്ല എന്നതിന്റെ സൂചനയാകാം ഇത് അവന്റെ ഹൃദയാഭിലാഷം നിരാശയാകാൻ പോകുന്നു കഥയുടെ അവസാനത്തെ ചിത്രം രവി നിലത്ത് ഒരു മരിച്ചയാളെപ്പോലെ കിടക്കുന്നതാണ് ഇത് വളരെ വളരെ ദാരുണമാണ് അതിന് മരണവുമായി ബന്ധമുണ്ട് അവന്റെ മനസ്സിന് ഏൽക്കുന്ന മുറിവിനെ ബൊഗെയ്ൻവില്ലയ്ക്ക് നഷ്ടമാവുന്ന ഓജസ്സുമായി താരതമ്യപ്പെടുത്താവുന്നതാണ് ബൊഗെയ്ൻവില്ലയ്ക്ക് അതിന്റെ ഓജസ്സ് നഷ്ടപ്പെട്ടു അതിനാൽ അതിന്റെ നിറം മാറുന്നു ആ നിറം പരിക്കിനേയും മുറിവിനേയും ഓർമപ്പെടുത്തുന്ന ഒന്നാണ് അതിനാൽ ഇവിടെ വളരെ ശക്തമായ സങ്കൽപ്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ കഥയ്ക്കും അതിലെ ചിത്രങ്ങൾക്കും വളരെ സുഖകരമോ ആരോഗ്യകരമോ സന്തോഷകരമോ അല്ലാത്ത കാര്യങ്ങളുമായി ബന്ധമുണ്ട് ദേശായി എഴുതുന്ന കുട്ടികളുടെ കളികളുടെ പശ്ചാത്തലത്തിൽ അത് വളരെ രസകരമാണ് ഗായത്രി നിങ്ങൾ പറഞ്ഞതിലേക്ക് വരാം കുട്ടികളുടെ കളി കുട്ടിക്കാലം പലപ്പോഴും ഒരുപാട് എഴുത്തുകാർ വളരെയധികം കാല്പനികമാക്കുന്നു റസ്കിൻ ബോണ്ടിന്റെ ബ്ലൂ അംബ്രെല്ല' എന്ന കഥയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും കുട്ടിക്കാലം എത്ര നിർമ്മലമാണ് എന്നാണ് നാം പറഞ്ഞത് എന്നാൽ അനിത ദേശായി ഇവിടെ കുട്ടികൾ കളിക്കുന്ന വളരെ നിഷ്കളങ്കമായ ഒരു രംഗമാണ് ദുഷിച്ച ഒരു യാഥാർത്ഥ്യം തുറന്നുകാണിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പ്രൊഫ അതെ വളരെ ശരിയാണ് ബോണ്ടിന്റെ കാര്യത്തിൽ അത് വളരെ സൂക്ഷ്മമായാണ് ചെയ്യുന്നത് അത് അത്രമേൽ സൂക്ഷ്മമായതിനാൽ നമുക്ക് അത് കണ്ടെത്താൻ പോലും കഴിഞ്ഞെന്നു വരില്ല ചില സൂചനകൾക്കു പുറകെ പോകാൻ നമ്മൾ ശരിക്കും നമ്മുടെ സ്പൈ ഗ്ലാസ് ഉപയോഗിക്കണം ആ മലയോര ഗ്രാമത്തിലെ എല്ലാം നല്ലതല്ലെന്നും അവിടെ വിള്ളലുകളുണ്ടെന്നും അത് നമ്മളോട് പറയുന്നു അവിടെ സാമൂഹികമായ വിള്ളലുകൾ ലിംഗ വിവേചനങ്ങൾ ക്ലാസ് വിഭജനം എന്നീ ഘടകങ്ങളെല്ലാം ഉണ്ട് പ്രകൃതിയുടെ സൌന്ദര്യത്തിന്റെ അടിയിൽ അവ മറഞ്ഞിരിക്കുന്നു എന്നാൽ ഇവിടെ അത് കൂടുതൽ വ്യക്തമാണ് എന്ന് ഞാൻ പറയും പക്ഷെ നാം ആ പ്രശ്നത്തെയോ പോരാട്ടത്തെയോ കളിസ്ഥലത്തിനുള്ളിലേക്ക് പരിമിതപ്പെടുത്താൻ സാധ്യതയുണ്ട് കുട്ടികൾ തമ്മിൽ കലഹിക്കുന്നു എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആ കലഹം ശരിക്കും പരുഷവും തീവ്രവുമാണ് ഏറേക്കുറെ അക്രമാസക്തവും അവരുടെ ഷർട്ടിന്റെ കൈകൾ കീറിപ്പറിഞ്ഞിരിക്കുന്നു അവർ പരസ്പരം തള്ളുന്നു തൊഴിക്കുന്നു രവി ഷെഡിനു പുറത്തു കടക്കാമെന്ന് ആലോചിക്കുന്ന ഒരു നിമിഷം കഥയിലുണ്ട് അപ്പോഴാണ് രഘു ഒരു പെൺകുട്ടിയെ ഭയപ്പെടുത്തുന്നത് അവൻ കേൾക്കുന്നത് ഒരു കൌമാരക്കാരനെ സംബന്ധിച്ച് അത് വളരെ അസ്വസ്ഥയുണ്ടാക്കുന്ന ഒരു ചിത്രമാണ് അവൻ ഒരു പെൺകുട്ടിയെ സമീപിക്കുമ്പോൾ ലൈംഗിക അതിക്രമം പോലെയുള്ള മറ്റു പലതുമായി നാം അതിനെ ബന്ധപ്പെടുത്തും അതിനാൽ അത് എല്ലായ്പ്പോഴും അവിടെയുണ്ട് ഒരു മൂലയിൽ അത് പതിയിരിക്കുന്നു അതുകൊണ്ട് കുട്ടികളുടെ കളികൾ കേവലം കുട്ടികളുടെ കളികളല്ല അത് മറ്റ് കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് ബന്ധമുള്ള മുതിർന്നവരുടെ ലോകത്തെക്കുറിച്ചും നമ്മെ ചിന്തിപ്പിക്കുന്നു ഇത് എന്ത് തരത്തിലുള്ള ലോകമാണ് മുതിർന്നവരുടേത് അവർക്കുള്ള മാതൃകകളായി നിലകൊള്ളുന്ന ആ ലോകം എങ്ങനെയുള്ളതാണ് ആ വലിയ വീട്ടിൽ കളിക്കുന്ന കുട്ടികളെ അത് എങ്ങനെ ബാധിക്കുന്നു ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കാൻ ഈ കുട്ടികൾ കളിക്കുന്ന കളികൾ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് ഗായത്രി നമുക്ക് കഥയിലെ മുതിർന്നവരെക്കുറിച്ച് സംസാരിക്കാം ഈ കുടുംബത്തിന്റെ പ്രവർത്തനത്തിൽ എന്തൊക്കെയോ വീഴ്ചകളുണ്ടെന്ന് ഞാൻ കരുതുന്നു രവി പോയതിനു ശേഷം കുറെ നേരമായിട്ടും കുടുംബം അവനെ അന്വേഷിക്കുന്നില്ല അവൻ തിരിച്ചു വരുമ്പോൾ അവന്റെ അമ്മ അവനോടു ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് ദേശായി പറയുന്നു അവൻ അവിടെ കരയുകയാണ് അവൾ വരുമ്പോൾ അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറയുന്നു അവൻ ഇത്രയും നേരം അവിടെ ഇല്ലായിരുന്നുവെന്നു പോലും അവർ കണ്ടെത്തിയില്ല അതിനാൽ നിങ്ങൾക്ക് അവരുടെ മനോഭാവത്തെക്കുറിച്ച് എന്തു തോന്നുന്നു വീണ്ടും രഘു ഒരു പെൺകുട്ടിയെ ഭയപ്പെടുത്തുമ്പോൾ അവൻ മുതിർന്നവരെ അനുകരിക്കുകയാണോ കാരണം അവൻ പ്രായപൂർത്തിയാകാൻ ആഗ്രഹിക്കുന്ന ആ പ്രായത്തിലാണ് പക്ഷേ അവന് പ്രായപൂർത്തിയായിട്ടില്ല പ്രൊഫ തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് അക്ഷരംപ്രതി ശരിയാണ് പ്രത്യേകിച്ചും ഒരു കൊച്ചുകുട്ടി അനുഭവിച്ച വേദനയോട് അനുയോജ്യമായ രീതിയിൽ അമ്മ പ്രതികരിക്കാത്തതിന്റെ കാര്യത്തിൽ നമുക്ക് ആ വരിയിലേക്ക് മടങ്ങാം ഇതാണ് വെളിയിൽ വരുമ്പോൾ രവി കാണുന്നത് പുൽത്തകിടിയിൽ കളിക്കുന്ന കുട്ടികൾ പദ്യം ചൊല്ലുന്നത് നിർത്തി അവരെല്ലാം അത്ഭുതത്തോടെ അവനെ തിരിഞ്ഞു നോക്കി സന്ധ്യയിൽ അവരുടെ മുഖങ്ങൾ വിളറിയും ത്രികോണാകൃതിയായും കാണപ്പെട്ടു മരങ്ങളും കുറ്റിക്കാടുകളും അവർക്ക് ചുറ്റും ഇരുണ്ടു നിന്നു അവയിൽ നിന്ന് നീണ്ട നിഴലുകൾ പരന്നു അവൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടതും അവന്റെ തീവ്രമായ വികാരവും അവന്റെ വന്യമൃഗത്തിനു സമാനമായ അലർച്ചയുമെല്ലാം അവർ ആശ്ചര്യത്തോടെ നോക്കി അമ്മ ദേഷ്യത്തോടെയും മടുപ്പോടെയും അവളുടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു വന്നു നിർത്തൂ നിർത്തൂ രവി എന്ന് അമ്മ പറഞ്ഞു ബാലിശമായി പെരുമാറരുത് എന്നും തുടർന്ന് നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചു ഇതെല്ലാം കാണുന്ന കുട്ടികൾ അവരുടെ കളിയിലേക്ക് മടങ്ങി അവർ പിന്നെയും കൈകൾ കൂപ്പി പുല്ല് പച്ചയാണ് റോസ് ചുവപ്പാണ് എന്ന് പാടാൻ തുടങ്ങി രവിയ്ക്ക് കടുത്ത നിരാശ അനുഭവപ്പെടുന്നു കാരണം അവനെ മറ്റു കുട്ടികൾ ശ്രദ്ധിക്കുന്നതേയില്ല അവൻ അവരുടെ നേരെ അക്രമാസക്തനാവുകയും ഒരുപാട് കരയുകയും ചെയ്യുന്നു അമ്മയ്ക്ക് ചെറിയ ആശങ്കയുണ്ടെങ്കിലും രവിയുടെ പെരുമാറ്റം കൂടുതലും അവളെ അലോസരപ്പെടുത്തുകയാണ് അമ്മയുടെ വേവലാതി അവന്റെ ശാരീരിക ക്ഷേമത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ അത് മുൻപ് സൂചിപ്പിച്ചിരുന്നു അമ്മ ആകുലപ്പെടുന്നത് അവന്റെ ശാരീരികാവസ്ഥയെക്കുറിച്ചാണ് മാനസികാവസ്ഥയെക്കുറിച്ചല്ല അവന്റെ കരച്ചിൽ അമ്മ അവഗണിക്കുകയാണ് കൊച്ചുകുട്ടികളെപ്പോലെ കരയരുതെന്നും മുതിർന്നവരെപ്പോലെ പെരുമാറണമെന്നും അമ്മ അവനോടു പറയുന്നു പിന്നെയും ഇത് അവൻ ഒരു ആൺകുട്ടിയായതുകൊണ്ടാണോ അത് മറ്റൊരു വളരെ നല്ല ചോദ്യമാണ് ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്നുണ്ടോ മീര എന്ന പെൺകുട്ടിയും അമ്മയുടെ മനോഭാവത്തെ പിന്തുണക്കുന്നുവെന്നത് രസകരമാണ് മീരയും അവനോട് കരയരുത് എന്ന് പറയുന്നുണ്ട് മീരയാണ് നേരത്തെ വഴക്കിടുന്ന ആൺകുട്ടികളെ പിടിച്ചുമാറ്റിയത് അവളാണ് ഒളിച്ചുകളിയിൽ അന്വേഷകനെ കണ്ടെത്താനായി ഒരു ഗെയിം കളിക്കാമെന്ന നിർദേശം മുന്നോട്ടു വെക്കുന്നത് രവി ഷെഡിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവനെ നിയന്ത്രിക്കുന്നത് അവളാണ് വരിയിൽ ചേരണമെന്നും വരിയുടെ ഏറ്റവും ഒടുവിൽ പോയി നിൽക്കണമെന്നും പ്രശ്നമുണ്ടാക്കരുതെന്നും അവൾ അവനോടു പറയുന്നു ഇവിടെ നാം കാണുന്നത് ഈ അധികാരശ്രേണി അംഗീകരിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെയാണ് അത് വരെ നടപ്പാക്കിയിരിക്കുന്ന സാമൂഹിക ക്രമം എല്ലാവരും പിന്തുടരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവർ ചെറിയ ഇടപെടലുകൾ നടത്തുന്നു അതാണ് അവർ ഇടപെടലുകൾ ചെറുതാണ് പുരുഷാധിപത്യം എന്നത് അവർ മനസ്സ് കൊണ്ട് പിന്തുടരുകയും മുതിർന്നവർ ചെയ്യുന്നത് അവർ അനുകരിക്കുകയും ചെയ്യുന്നു അതിനാൽ അവസാനം വരെ നാം പിതാവിനെ കാണുന്നില്ല അയാൾ തികച്ചും നിശ്ശബ്ദനാണ് അയാൾ പൂന്തോട്ടത്തിൽ ഇരിക്കുകയും അവിടെ കളിക്കുന്ന കളികൾ കാണുകയും ചെയ്യുന്നു അയാൾ നിശ്ശബ്ദനാണ് പക്ഷേ അയാൾക്ക് അധികാരമുണ്ട് കാരണം അയാളുടെ സാന്നിധ്യത്തിൽ കുട്ടികൾ നന്നായി പെരുമാറുന്നു അവർ അപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല കുട്ടികളുടെ സഹായത്തോടെ കാർ കഴുകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചരിക്കും അവർ ഒരു കുഴപ്പവും ഉണ്ടാക്കാത്ത ഒരേയൊരു പ്രവർത്തി ഇതാണ് അച്ഛൻ ഉള്ളത് കൊണ്ടാണോ ഇത് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണിത് ഇമേജറിയെക്കുറിച്ച് നാം ഒരുപാട് സംസാരിച്ചു അത് വളരെ വ്യക്തമായതിനാൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു തുടക്കത്തിലെ ഖണ്ഡികകൾ മുതൽ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അനുമാനങ്ങൾ അധികം ഉപയോഗിക്കാതെ തന്നെ സങ്കൽപ്പിക്കാൻ കഴിയും ദേശായി അധികമൊന്നും നമ്മുടെ ഭാവനയ്ക്ക് വിട്ടുതരുന്നില്ല അവർ വളരെ മനോഹരമായി എഴുതുന്നു അവരുടെ ഭാഷ വളരെ വ്യക്തമാണ് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഗായത്രി അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാമോ പ്രൊഫ ഞാൻ പറഞ്ഞതുപോലെ അത് വളരെ സമ്പന്നമാണ് വളരെ ആഴമേറിയതാണ് ഒരു ചെറിയ ഖണ്ഡികയ്ക്കുള്ളിൽ തന്നെ മണിക്കൂറുകളോളം നിങ്ങൾ അകപ്പെട്ടുപോയേക്കാം അങ്ങനെയുള്ള ഒരു ഖണ്ഡിക തിരഞ്ഞെടുക്കാം അതിൽ മുൻപ് ഞാൻ പറഞ്ഞ ഒരു കാര്യം സൂക്ഷ്മമായി വായിക്കേണ്ടതുണ്ട് വീണ്ടും വായന അർഹിക്കുന്ന ഒന്നാണ് ഷെഡിനെക്കുറിച്ച് പറഞ്ഞ കാര്യം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അത് തുറക്കാറുള്ളു എല്ലാ പൊട്ടിയ ഫർണിച്ചറുകളും മോപ്പിംഗ് റോളുകളും ചോരുന്ന ബക്കറ്റുകളും പുറത്തെടുക്കാൻ വേണ്ടിയാണ് അമ്മ അത് തുറക്കുന്നത് അമ്മ വെളുത്ത ചിതൽപുറ്റുകൾ അടിച്ചുവാരി കളയുകയും ചിലന്തിവലകളിലേക്കും എലികളുടെ പൊത്തുകളിലേക്കും കീടനാശിനി തളിക്കുകയും ചെയ്തു ഈ മുഴുവൻ പ്രവൃത്തിയും ഒരു പാവപ്പെട്ട നശിച്ച കീഴടക്കപ്പെട്ട നഗരത്തെ കൊള്ളയടിക്കുന്നതു പോലെയായിരുന്നു വാതിലിലെ പച്ച ഇലകൾ അയഞ്ഞു അവ ഏറെക്കുറെ അതിന്റെ തുരുമ്പിച്ച അരികുകളിൽനിന്നും വിട്ടുപോന്നിരുന്നു വാതിലിന്റെ അരികുകൾ വലിയതായിരുന്നു അവ ഒരു ചെറിയ വിടവുണ്ടാക്കിയിരുന്നു ഭിത്തികൾക്കിടയിലൂടെ എലികൾക്കും നായ്ക്കൾക്കും ഒരുപക്ഷേ രവിയ്ക്കും കടന്നുപോകാനുള്ള അത്ര സ്ഥലമുണ്ടായിരുന്നു അതിനാൽ ജീവികളുടെയും വസ്തുക്കളുടെയും സംയോജനം അതിശയകരമായി ചെയ്തിരിക്കുന്നു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആലങ്കാരികമായ ഭാഷ എന്നെ ശരിക്കും അതിശയിപ്പിക്കുന്നു ഈ പ്രവർത്തനരഹിതമായ വീട്ടുപകരണങ്ങളെക്കുറിച്ചും ഇഴജന്തുക്കളെക്കുറിച്ചും സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഉപമ വളരെ ശ്രദ്ധേയമാണ് അവയെ പാവപ്പെട്ട കീഴടക്കപ്പെട്ട ഒരു നഗരമായും അമ്മയെ ഒരു അക്രമിയായും താരതമ്യം ചെയ്യുന്നത് തികച്ചും അർത്ഥവത്താണ് കാരണം മീരയെയും അമ്മയെയും നാം നോക്കുകയാണെങ്കിൽ അവർക്ക് വേദനകൾ അനുഭവിക്കുന്ന കുട്ടികളോട് അനുകമ്പ കുറവാണ് എന്ന് മനസിലാക്കാം അങ്ങനെയാണ് രവിയെ എലികളോടും പട്ടികളോടും ചേർത്തു നിർത്തുന്നത് എല്ലാ ശ്രേണിയിലും ഏറ്റവും താഴ്ന്നവരെയാണ് ഇവിടെ ഒരുമിച്ച് ചേർക്കുന്നത് അതിനാൽ കഥയിലെ ഈ ഇമേജറി വായനക്കാരിൽ ഒരു വിസ്മയം സൃഷ്ടിക്കാൻ മാത്രമുള്ളതല്ല അത് ഒരു പ്രത്യേക ഉദ്ദേശത്തിനുവേണ്ടിയുള്ളതാണ് ദേശായി കുട്ടികളുടെ ലോകത്തിലെ ഈ ശ്രേണിയെക്കുറിച്ച് സംസാരിക്കുന്നത് മറ്റ് ശ്രേണികളെക്കുറിച്ച് സംസാരിക്കാൻ ആണെന്ന് ഞാൻ കരുതുന്നു സമൂഹത്തിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ അധികാരശ്രേണിയുടെ സ്ഥാപനം അല്ലെങ്കിൽ ശക്തിപ്പെടുത്തൽ എന്നിവയെല്ലാം തുറന്നുകാണിക്കാൻ വേണ്ടിയാണിത് ഇത്തരം രൂപങ്ങളെ പ്രത്യേകിച്ച് മാതൃരൂപങ്ങളെ നാം എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് രസകരമാണ് കഥയിലെ ചില നിമിഷങ്ങളിൽ അത് ദേശായി അനാവരണം ചെയ്യുന്നു അത് വളരെ ഫലപ്രദമായും സൂക്ഷ്മമായും ചെയ്യുന്നു ഗായത്രി പിന്നെയും ശ്രേണികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സഹോദരങ്ങൾക്കിടയിലുള്ള ശ്രേണികൾ പുറത്ത് നിലവിലുള്ള മറ്റു സാമൂഹികമായ ശ്രേണികളെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ പ്രൊഫ അതെ അത് പ്രതിഫലിപ്പിക്കുന്നുണ്ടാകാം ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾ സംഭാഷണം നോക്കുകയാണെങ്കിൽ തുടക്കത്തിലെ സംഭാഷണത്തിൽ അവർ ഈ ഒളിച്ചുകളി കളിക്കാൻ തീരുമാനിക്കുന്നിടത്ത് ഞാൻ ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു ആ സംഭാഷണം യാതൊരു പ്രിഫിക്സുകളും ഇല്ലാതെയാണ് തുടങ്ങുന്നത് ആരാണ് അവിടെ സംസാരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമല്ല എന്നാൽ നമുക്ക് ഊഹിക്കാം ഒരു സീനിയർ ആയ വ്യക്തിയും ജൂനിയർ ആയ വ്യക്തിയും ഉണ്ടെന്ന് അത് സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു സമൂഹത്തിൽ ഉയർന്നവർ താഴ്ന്നവരെ ചവിട്ടിത്താഴ്ത്തുന്നത് പോലെ ഇവിടെയും ഉയർന്നവർ താഴ്ന്നവരുടെ മേലുള്ള അവരുടെ അധികാരം കാണിക്കുന്നു ആ സംഭാഷണത്തിലും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള വിഭാഗങ്ങളും അവയുടെ ക്രമങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഒളിച്ചു കളിക്കാം എന്ന് അവർ പറയുന്നു തുടർന്ന് ആരായിരിക്കും അത് നീ ആകൂ എന്തിനു ഞാൻ ആകണം നീ ആകുക നീയാണ് മൂത്തവൻ എന്ന് അവർ പറയുന്നുണ്ട് ഇവിടെ ഏറ്റവും മൂത്തയാൾ ഒരുതരം സമ്മർദത്തിനും അത്ര എളുപ്പത്തിൽ വഴങ്ങുന്നില്ല രഘു തോൽക്കുമ്പോൾ പോലും ഒരു കാര്യം വളരെ വ്യക്തമാണ് അവന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നീ ചതിച്ചു മീര ചതിച്ചു എന്ന് അവൻ പറയുന്നു അതിനാൽ ആ ദേഷ്യം അവൻ എളുപ്പത്തിൽ പ്രകടിപ്പിക്കുന്നു ആ ദേഷ്യം പ്രകടിപ്പിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനും അവന് അവിടെ ഇടമുണ്ട് എന്നത് രസകരമാണ് അവൻ തോൽക്കുമ്പോൾ അധികാരത്തിലുള്ള മറ്റു വ്യക്തികളുടെ സഹായവും അവൻ തേടുന്നു അമ്മ നമ്മളോട് പുറത്ത് പോകരുതെന്നും വരാന്തയിലും മുറ്റത്തുമാണ് കളിക്കാൻ പറഞ്ഞിട്ടുള്ളതെന്നും അവൻ പറയുന്നു അപ്പോൾ അവൻ അവനെക്കാൾ അധികാരമായുള്ളവരുടെ സഹായം തേടുകയാണ് അത് വളരെ രസകരമാണ് നമുക്ക് രഘുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം അവൻ വിസിൽ മുഴക്കുന്നു ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് അവൻ പറയുന്ന ഒരു സീനുണ്ട് അവൻ ആരെയോ തൊഴിക്കുന്നു ചൂളമടിക്കുന്നതും ചവിട്ടുന്നതും ഇവയെക്കുറിച്ച് ഞാൻ പറയാം സാധാരണയായി നമ്മൾ സന്തോഷം വരുമ്പോഴാണ് ചൂളമടിക്കുന്നത് എന്നാൽ അത് മറ്റുള്ളവരെ ഭയപ്പെടുത്തി അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ രഘു ചെയ്യുന്നത് അതാണ് അതിനാൽ ചൂളമടിക്കുന്നതിനെ നല്ല രീതിയിൽ നോക്കുമ്പോൾ അത് സന്തോഷത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ അത് ഭയപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും മറ്റുള്ളവരെ പ്രത്യേകിച്ച് നിങ്ങളെക്കാൾ താഴെയുള്ള ആളുകളെ ഉപദ്രവിക്കാനും ഉപയോഗിക്കാം അതാണ് രഘു ചെയ്യുന്നത് മറ്റ് കുട്ടികളെ വേട്ടയാടുമ്പോൾ അവന്റെ വിസിലിന്റെ മൂർച്ചയും ദേഷ്യവും കൂടുന്നു മറ്റു കുട്ടികൾ ഒളിച്ചിരിക്കുകയാണ് അതിനാൽ അവിടെ ഒരു വേട്ട നടക്കുന്നത് പോലെയാണ് ഇത് നമ്മെ വില്യം ഗോൾഡിംഗിന്റെ സൃഷ്ടിയെ ഓർമ്മപ്പെടുത്തുന്നു 'ലോർഡ് ഓഫ് ദി ഫ്ളൈസ്' എന്ന കൃതിയിൽ അദ്ദേഹം സ്കൂളിലെ ആൺകുട്ടികളുടെ സംഭാഷണങ്ങൾ ഉപയോഗപ്പെടുത്തികൊണ്ട് അവിടത്തെ സമ്മർദങ്ങളെയും സംഘർഷങ്ങളെയും യുദ്ധം കൈയേറിയ പ്രദേശങ്ങളെയും തുറന്നു കാണിക്കുന്നു മുഖ്യധാരാ സമൂഹത്തിൽ മുതിർന്നവർ കാണിക്കുന്ന വിവേചനങ്ങളും എല്ലാ ഭീകരതകളും കുട്ടികൾ അവരുടേതായ രീതിയിൽ അനുകരിക്കുന്നു രഘു ഇവിടെയുള്ള കുറ്റിച്ചെടികളെ ചവിട്ടിമെതിക്കുമ്പോൾ എല്ലാത്തിനെയും തകർക്കുമ്പോൾ ആ സമാനത ഇവിടെ കടന്നുവരുന്നുണ്ട് അവൻ മതിലിൽ അവന്റെ വടി കൊണ്ട് അടിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു നീ മരിച്ചു എന്ന തരത്തിലുള്ള ഭാഷയാണ് അവൻ കളിയിൽ ഉപയോഗിക്കുന്നത് അത് വളരെ വളരെ പ്രതീകാത്മകമാണ് ഇവിടെ മരണം ശവകുടീരം ശവപ്പെട്ടി എന്നിവയുമായി ബന്ധപ്പെട്ട ധാരാളം സാഹചര്യങ്ങൾ നാം കാണുന്നു ഇവയെല്ലാം കഥയിലെ ഭാഷയിൽ വളരെ നന്നായി വികസിക്കുന്നു ഇതെല്ലാം വളരെ ഭീതിയുണ്ടാക്കുന്ന ഇരുണ്ട ചിത്രങ്ങളാണ് പ്രത്യേകിച്ചും ഷെഡിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഷെഡ് എന്നത് ശ്വാസം മുട്ടിക്കുന്ന ഒരു ഇടമാണ് ഒരു ശവപ്പെട്ടിയ്ക്ക് സമാനമായ ഇടം നേരത്തെ ഒരു പരാമർശമുണ്ട് ഒരു ഉൾച്ചേർത്ത വിവരണമുണ്ട് അത് രവി ഒരു അലമാരയിൽ അകപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചാണ് അവിടം അവനു കൂടുതൽ പരിചിതമായി തോന്നി കാരണം ആ ഇടം അവനെ അമ്മയെ ഓർമിപ്പിക്കുന്നു പക്ഷെ ഇവിടെ വീണ്ടും കടന്നുവരുന്നത് ചെറിയ ഇടങ്ങളിൽ അകപ്പെട്ടു പോകുന്ന ആശയമാണ് വീടും സൌഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലല്ല നിലകൊള്ളുന്നതെന്ന് രചയിതാവ് പറയുന്നു വീടിനുള്ളിൽ ചൂട് കുറവുണ്ടായിരുന്നില്ല എന്ന് കഥാകാരൻ പറയുന്നു എന്നിരുന്നാലും അത് സൂര്യനിൽ നിന്നുള്ള സംരക്ഷണം നൽകിയിരുന്നു ഇത് മാതൃകാപരമായ സുരക്ഷിതവലയം തീർക്കുന്ന ചുറ്റും ധാരാളം സുഖസൌകര്യങ്ങൾ ഉള്ള ഒരു ക്ലീഷേ വീടല്ല എന്നത് ഇവിടത്തെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ സൂചിപ്പിക്കുന്നതായി തോന്നുന്നു വീട് ഷെഡ് അവൻ അകപ്പെടുന്ന അലമാര ഇവയിലെല്ലാം അകപ്പെട്ടു പോകുന്ന ആശയമാണ് ഉള്ളത് രവിയ്ക്കു സമൂഹത്തിന്റെ അംഗീകാരം ആവശ്യമുണ്ട് രവിയ്ക്ക് മാത്രമല്ല ഇത് മുതിർന്ന ഒരു വ്യക്തിക്കും ആവശ്യമുണ്ട് നിങ്ങൾ ഗോൾഡിംഗിനെക്കുറിച്ച് പറയുകയായിരുന്നല്ലോ മുതിർന്നവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലതും വളരെ സ്വാഭാവികമായി നമുക്ക് തോന്നും എന്നാൽ അതെല്ലാം കുട്ടികളുടെമേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ കുട്ടികൾ അതുപോലെ ചെയ്യുമ്പോൾ നാം നടുങ്ങിപ്പോകുന്നു അതിനാൽ ഇത് ഒരു നല്ല താരതമ്യമാണെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണോ അനിതാ ദേശായി ഈ വൈരുദ്ധ്യങ്ങളെയും ഭീകരതകളെയും ക്രൂരതകളെയും തുറന്നുകാണിക്കാൻ കുട്ടികളെ ഉപയോഗിച്ചത് രഘുവിന്റെ പെരുമാറ്റത്തിൽ ക്രൂരത എല്ലായിടത്തും ഉള്ള ഒന്നാണ് ചിലപ്പോൾ അത് രവിയിലും നാം കാണുന്നു കാരണം അവൻ ഷെഡിൽ നിന്ന് പുറത്തു വരുമ്പോഴുള്ള വിവരണം നാം നോക്കുകയാണെങ്കിൽ അവൻ ഒരു മൃഗത്തെപ്പോലെ ഒരു മുട്ടനാടിനെപ്പോലെ ഒരു വേട്ടക്കാരനെപ്പോലെ അക്രമാസക്തമായ രീതിയിൽ കടന്നുവരുന്നതായി കാണാം 'ചാർജിംഗ്' എന്ന വാക്ക് രസകരമായ ഒരു തിരഞ്ഞെടുപ്പാണ് വീണ്ടും അവൻ കരയുന്നു അവന്റെ നിലവിളിയെ ഒരു മൃഗത്തിന്റെ ഓരിയിടലുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് അതിനാൽ നമ്മുടെ തൊലിപ്പുറത്തിനു തൊട്ടു താഴെ പ്രാകൃതമായ സഹജാവബോധം മറഞ്ഞിരിക്കുന്നുണ്ടെന്നും അത് നാം തഴയപ്പെടുമ്പോഴോ പ്രകോപിതരാകുമ്പോഴോ പുറത്തേക്ക് വരുമെന്നുമാണ് ഇവിടത്തെ ആശയം അതിനാൽ ആ ഘടകവും തിരിച്ചറിയപ്പെടണം വന്യവും അക്രമാസക്തവുമാകാനുള്ള കഴിവ് എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഒരു പക്ഷെ ആൺകുട്ടികളിൽ ആയിരിക്കാം പെൺകുട്ടികളിൽ ഉള്ളതിനേക്കാൾ ഇത് കൂടുതൽ ഉള്ളത് പെൺകുട്ടികൾ അവരുടെ ബുദ്ധിയും വിവേചനവും ഉപയോഗിച്ചാകാം സമൂഹത്തിലെ പ്രശ്ങ്ങളെ നേരിടുന്നത് അപ്പോൾ അതും ഉണ്ട് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം നൽകിയോ അതിനാൽ സാധൂകരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവനു വേണ്ടത് വിജയമാണ് മുതിർന്ന കുട്ടികളുടെ ഇടയിൽ വിജയിച്ചവൻ ആകാൻ അവൻ ആഗ്രഹിക്കുന്നു അത് അവൻ തീവ്രമായി ആഗ്രഹിക്കുന്നു അവൻ ഷെഡിൽ ഒരുപാട് നേരം കാത്തിരിക്കുന്നു ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ച് അത് വലിയ സമയമാണ് അവനു ചുറ്റും പഴയ പൊടി പിടിച്ച സാധനങ്ങളും ഇഴജന്തുക്കളുമുണ്ട് അവൻ പാമ്പുകൾ അവനു ചുറ്റും ഇഴയുന്നത് സങ്കൽപ്പിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞു അവൻ പുറത്തു വരുന്നത് വിജയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പക്ഷെ അവന് അത് ലഭിച്ചില്ല അതിനാൽ അവൻ വളരെയധികം നിരാശനാകുന്നു അതിലുപരിയായി അവന് ഏറ്റവും നിരാശ ഉണ്ടാക്കുന്നത് എല്ലാവരും അവനെക്കുറിച്ച് മറന്നുപോയി എന്ന വസ്തുതയാണ് അതാണ് ഭീകരതകളിൽ വെച്ച് ഏറ്റവും വലിയ ഭീകരത അവർക്ക് എങ്ങനെ എന്നെ മറക്കാൻ കഴിഞ്ഞു നിങ്ങൾ മുൻപ് സൂചിപ്പിച്ചത് പോലെ മാതാപിതാക്കൾ പോലും അവനെ മറക്കുന്നു അത് അവരുടെ വീഴ്ചയാണ് കാണാതായ ഒരു കുട്ടിയെ അവർ ഓർക്കുന്നില്ല എന്നത് രണ്ടു മാതാപിതാക്കളും അവിടെയുണ്ട് അച്ഛനും അമ്മയും എന്നിട്ടും രവി കരഞ്ഞുകൊണ്ട് പുറത്തേക്കു വരുന്നത് വരെ അവർ അവന്റെ അസാന്നിധ്യം അറിയുന്നില്ല അതിനു ശേഷവും അവന് അവരുടെ ഒരു അനുകമ്പയും ലഭിക്കുന്നില്ല അവന്റെ അച്ഛന്റെ കാര്യമോ തന്റെ കുട്ടിയോട് അയാൾ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തുന്നില്ല എന്തുകൊണ്ടാണ് അയാൾ നിശബ്ദനായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അയാൾ അയാളുടെ ഭാര്യ സംസാരിച്ചു കൊള്ളട്ടെ എന്ന് വിചാരിക്കുന്നത് ഒരുപക്ഷേ അയാൾ അത് അവളുടെ ജോലിയാണ് ചുമതലയാണ് എന്ന് വിചാരിക്കുന്നുണ്ടാകും അതിനാൽ ഇവിടെ ചുമതലകൾ ലിംഗപരമായി കൃത്യമായ രീതിയിൽ വിഭജിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഉയർന്നുവരുന്നു ഇവയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ അതിനാൽ ആ നിസ്സാരതയാണ് അവനെ ഏറ്റവും വേദനിപ്പിക്കുന്നത് അവൻ നനഞ്ഞ പുല്ലിൽ അവന്റെ മുഖം അമർത്തി കിടക്കുന്ന കാഴ്ച ഒരേ സമയം സ്നേഹം ഉണർത്തുന്നതും പരിതാപകരവുമായ ഒന്നാണ് അവൻ കരയുന്നില്ല മറിച്ച് അവന്റെ നിസ്സാരതയുടെ ഭയാനകത അവനെ നിശ്ശബ്ദനാക്കുകയാണ് അവൻ ഭൂമി മാതാവിൽ നിന്ന് ആശ്വാസം തേടുന്നു എന്ന അർത്ഥത്തിൽ അത് വളരെ മധുരമാണ് ഈ കൊച്ചുകുട്ടിക്ക് ആവശ്യമായ ആശ്വാസം അവന്റെ സ്വന്തം അമ്മ നൽകുന്നില്ല അപ്പോൾ ഭൂമി ഒരു വലിയ മാതൃരൂപമാകുന്നു അവന്റെ കിടപ്പിന്റെ രീതി മരണത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ മരിച്ച് മറവുചെയ്യപ്പെടുമ്പോൾ പ്രകൃതിയോട് ഏറ്റവും അടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആത്യന്തികമായ ആശ്വാസം ലഭിക്കൂ എന്ന ആശയം ഇവിടെയുണ്ട് ഈ ആശയങ്ങളെല്ലാം അനിവാര്യമായും നമ്മുടെ ചിന്തകളിലേക്ക് കടന്നുവരുന്നു വീണ്ടും ഇവിടെ നമുക്ക് നിഷ്കളങ്കതയുടെ മരണത്തെക്കുറിച്ച് പോലും സംസാരിക്കാം അതെ തികച്ചും അവൻ ഒരിക്കലും ലോകത്തെ പഴയതു പോലെ കാണില്ല ആ നിഷ്കളങ്കതയുടെ നഷ്ടപ്പെടൽ അനിവാര്യമാണ് അവൻ ചെയ്യുന്നതെന്തും വ്യർത്ഥമാണ് അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അതെ നിഷ്കളങ്കത നഷ്ടപ്പെടുന്നത് വളരെ രസകരമായ ഒരു വസ്തുതയാണ് തനിക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നും ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്നും ഒരു സഹായവും ലഭിക്കില്ല എന്ന അവന്റെ തിരിച്ചറിവ് ജീവിക്കാൻ ഒട്ടും എളുപ്പമല്ലാത്ത ഈ സമൂഹത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അവൻ ആ വേദനാജനകമായ പാഠം ആ ചെറുപ്രായത്തിൽ തന്നെ പഠിക്കുന്നു അതിനാൽ വളർച്ചയുടെ ഒരു പാഠമായും ജീവിതം ഒറ്റക്ക് നയിക്കേണ്ടതായ മറ്റുള്ളവരിൽ ആശ്വാസത്തിനോ അംഗീകാരത്തിനോ വേണ്ടി ആശ്രയിക്കാൻ കഴിയാത്തതായ മുതിർന്നവരുടെ ലോകത്തിലേക്കുള്ള ഒരു പ്രവേശനമായും ഇതിനെ നമുക്ക് കാണാം ഗായത്രി മുഴുവൻ കഥയെയും വിശകലനം ചെയ്യുമ്പോൾ അവസാനമായി ഒരു ചോദ്യം ഒരുപക്ഷേ ഞാൻ അതിനെ വല്ലാതെ ലളിതമാക്കുകയായിരിക്കാം പക്ഷെ ഈ കഥയുടെ പ്രമേയം പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം ആണെന്ന് പറയാൻ സാധിക്കുമോ പ്രൊഫ അത് പ്രമേയങ്ങളിൽ ഒന്നായിരിക്കാം ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നിരവധി തീമുകൾ ഉണ്ട് എല്ലാ ഭാഗങ്ങളും നിങ്ങളോട് പുതിയ കാര്യങ്ങൾ പറയും ജീവിതവും അത് സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതും എന്നാൽ യാഥാർത്ഥ്യവും പ്രതീക്ഷയും തമ്മിലുള്ള വ്യത്യാസവും വളരെ പ്രധാനപ്പെട്ട തീം ആണ് കാരണം രവി വളരെ ലളിതമായ ചില പ്രതീക്ഷകളുള്ള ഒരു കുട്ടിയാണ് അവൻ കരുതുന്നു അവൻ ഒരുപാട് സമയം ഒളിച്ചിരുന്നാൽ അവന് അതിനുള്ള അംഗീകാരം ലഭിക്കുമെന്ന് അവന് കിട്ടാൻ പോകുന്ന ബഹുമതികൾ ആലോചിച്ചുകൊണ്ട് അവൻ നാണത്തോടെ ചിരിക്കുന്നു അത് അവന്റെ നിഷ്കളങ്കതയാണ് അവന്റെ പ്രതീക്ഷകൾ സൂത്രവാക്യങ്ങൾ പോലെയാണ് എന്നാൽ പിന്നീട് അവൻ ജീവിതം അങ്ങനെ ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു ലോകം വളരെയധികം മാറിയിരിക്കുന്നു കുട്ടികൾ ഒരു കളിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നു അത് അവനറിയില്ല അവൻ അവന്റെ സ്വന്തം ലോകത്തിൽ അവന്റെ മനസ്സിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത് അതിനാൽ അവന്റെ യാഥാർത്ഥ്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് അവന് കാര്യങ്ങൾ ശരിക്കും മനസിലാകണമെങ്കിൽ അവന്റെ മനസ്സിന് പുറത്തുള്ളതിനെക്കുറിച്ചും അവൻ ചിന്തിക്കേണ്ടതുണ്ട് ഈ ലോകത്ത് സമാധാനപരവും സുഖപ്രദവുമായ ഒരു ജീവിതം നയിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അവയെക്കുറിച്ച് ചിന്തിക്കണം പ്രതീക്ഷയ്ക്കും യാഥാർത്ഥ്യത്തിനുമിടയിൽ ഒരു വലിയ ഗർത്തമുണ്ട് പ്രത്യേകിച്ചും നിഷ്കളങ്കരുടെയും അധികാരം ഇല്ലാത്തവരുടെയും താഴ്ന്നവരുടെയും പശ്ചാത്തലത്തിൽ അവർ നിരാശപ്പെടാതിരിക്കാൻ കഠിനമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വളരെയധികം നന്ദി ഈ സംഭാഷണം നിങ്ങൾ ആസ്വദിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കണ്ടതിന് നന്ദി അടുത്ത സെഷനിൽ ഞാൻ നിങ്ങളുമായി സംഭാഷണം തുടരും